സെൽ കൾച്ചർ ടെക്നോളജി യുടെ ലെക്ചർ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ആഴ്ചയിലെ അഞ്ചാമത്തെ ലെക്ചർ നടത്തുന്നു കഴിഞ്ഞ ലെക്ചറിൽ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു കേസ് പഠനം എടുത്തിരുന്നു അതായത് ഒരു കമ്പനി അൽഷീമേഴ്സ്Alzheimer's രോഗികളെ സഹായിക്കാനായി കുറച്ച് മരുന്നുകൾ പരിശോധിക്കുന്നു സാങ്കല്പികമായി ഈ മരുന്നിൻറെ ഉപയോഗത്താൽ ക്വാണ്ടിഫിക്കേഷൻ പാരമീറ്ററുകൾ ആയ സിനാപ്സ്കളുടെ എണ്ണം വർധിപ്പിക്കും എന്ന് നമ്മൾ പറഞ്ഞു അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിനാപ്സ് ബട്ടണുകളെ ആ രീതിയിൽ കണക്കാക്കാം അതിലൂടെ പോയപ്പോൾ ഇൻ വിട്രോ ലെവലിൽ കുറച്ചുകൂടി വിപുലമായ മോഡൽ സിസ്റ്റത്തെ വികസിപ്പിച്ച് എടുക്കാൻ കുറച്ച് വശങ്ങൾ കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായ ഒരു പോയിന്റ് ഒരു പാറ്റേൺ നെറ്റ്വർക്കിന്റെ ആവശ്യമാണ് അതായത് ഒരു ദിശയിലേക്ക് വിവര കൈമാറ്റം പിന്തുടരുന്ന നെറ്റ്വർക്ക് രണ്ടാമതായി 3 ഡയമെൻഷൻലേക്കുള്ള വികസനം അതായത് 2 ഡയമെൻഷനിൽ നിന്നും 3 ഡയമെൻഷനിലേക്ക് മൂന്നാമതായി ഉയർന്നുവന്ന ആശയം കാര്യങ്ങളെ ചിന്തിക്കാനും വീണ്ടും സന്ദർശിക്കാനും ഇടയാക്കി അതായത് ഫീറ്റൽ ദിവസം 18 അഥവാ ഗർഭിണിയായ എലിയുടെ 21 23 ദിവസമായ ഗര്ഭപിണ്ഡത്തിന്റെ ഹിപ്പോകാമ്പൽ കൾച്ചർ ഉപയോഗിക്കാനുള്ള ആശയം ഇത് അൽഷിമേഴ്സ് സിസ്റ്റത്തെAlzheimer's system വിലയിരുത്തുന്നതിന് ഒരു നല്ല മാതൃക സംവിധാനമാണ് ഇത് നമ്മളെ പരിഹാരങ്ങൾക്കായി ഭാവിയിൽ കൂടുതൽ തിരയാൻ പ്രേരിപ്പിക്കും ഈ പരിഹാരങ്ങൾകായുള്ള തിരച്ചിൽ തുടങ്ങുന്നത് ഒരു പ്രധാന ലക്ഷ്യത്തോടെയാണ് മുതിർന്നവരുടെ ഹിപ്പോകാമ്പൽ ന്യൂറോണിന്റെ ത്രിമാന പാറ്റേൺ ശൃംഖല ഒരു ടെസ്റ്റ് ബെഡ് ആയി കിട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ അഞ്ചാം ആഴ്ചയിലെ അഞ്ചാമത്തെ ലെക്ചറിലേക്ക് പോകുന്നു ഇവിടെ നമ്മുടെ ലക്ഷ്യം മുതിർന്നവരുടെ ഹിപ്പോകാമ്പൽ ന്യൂറോണിന്റെ ത്രിമാന പാറ്റേൺ ശൃംഖല ആണ് അതായത് മരുന്ന് സ്ക്രീനിംഗിനായി ടെസ്റ്റ് ബെഡായി മുതിർന്നവരുടെ ഹിപ്പോകാമ്പൽ ന്യൂറോണിന്റെ 3D പാറ്റേൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗത്തിനെതിരായ മരുന്ന്കൾ എന്ന് പറയാം തീർച്ചയായും ഈ സാഹചര്യത്തിൽ സാധ്യമായ മോഡൽ സിസ്റ്റവും ഉപയോഗിക്കും മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം തുടങ്ങുവാൻ മൂന്ന് സാധ്യതകൾ ഉണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിൽ ശാസ്ത്രകൃയയിലൂടെ എടുത്ത മനുഷ്യരുടെ ന്യൂറോണിലേക്കും പോകാം അതിനാൽ ആദ്യ പരീക്ഷണം A അഥവാ B ഇൽ ആയിരിക്കും മൂന്നാമതാവും C മനുഷ്യ ന്യൂറോണുകൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെപ്പറ്റി സംസാരിക്കാം ഉദാഹരണത്തിന് ഒരു ബ്രെയിൻ ട്യൂമർ സർജറി നടക്കുന്നു ഇതിനായി അവർ മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്ന് ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നല്ല മസ്തിഷ്ക ടിഷ്യുവിൻറെ ഒരു ഭാഗവും നഷ്ടപ്പെടുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ ടിഷ്യു ശേഖരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവ ശേഖരിച്ച് അതിലെ ലൈവ് ന്യൂറോണുകളെ ഉപയോഗിക്കുക ഒരു ഡിഷിൽ മനുഷ്യൻറെ ന്യൂറോൺ കൾച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിനാൽ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സോഴ്സ്ന്റെ ഉറവിടം മാറാൻ പോകുന്നു എന്നതാണ് അതായത് ഗര്ഭപിണ്ഡത്തില് നിന്ന് മുതിർന്നവരിലേക്ക് അതിനാൽ ഫീറ്റൽ ഹിപ്പോകാമ്പസിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഇതുപോലെയാണ് ഇത് വളരെ മൃദുവായ F18 ടിഷ്യു ആണ് എന്നാൽ മുതിർന്നവരിൽ ഇത് വലുതായിരിക്കും അതായത് ഇതുപോലെ എന്നാൽ ഫീറ്റൽ ടിഷ്യുവിനെ അപേക്ഷിച്ച് ഈ ടിഷ്യു വിനെ മെക്കാനിക്കൽ ആയി വേർതിരിക്കാനാവില്ല അതായത് ഫീറ്റൽ ടിഷ്യുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടിഷ്യുവിനെ യാന്ത്രികമായി വിച്ഛേദിക്കാം എന്നാൽ മറുവശത്ത് മുതിർന്നവരുടെ ഹിപ്പോകാമ്പൽ ന്യൂറോൺ സെൽ കൾച്ചർ യാന്ത്രികമായി വിച്ഛേദിച് വികസിപ്പിക്കാനാകില്ല ഇതിനായി യാന്ത്രികമായി വിച്ഛേദിക്കുന്നത്തിന് മുൻപ് ആദ്യപടിയായി ഒരു എൻസൈമാറ്റിക് സ്റ്റെപ്പ് ചെയ്യണം എൻസൈമാറ്റിക് സ്റ്റെപ്പ്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഒരു അഡൽറ്റ് ടിഷ്യു ആയതിനാൽ ഏത് എൻസൈം ആകും യോജിക്കുക ഞാൻ പറയുന്നു ഈ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താത്ത വളരെ സൌമ്യമായ എൻസൈം ആയിരിക്കണം കാരണം ഈ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണുകൾക്ക് പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് വളരെ പരിമിതമാണ് ഇങ്ങനെ ഇവക്ക് പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് വളരെ പരിമിതമാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരിക്കലും ഇവയെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല അതിനാൽ എൻസൈമാറ്റിക് ട്രീറ്റ്മെൻറ്നായി മറ്റ് എൻസൈമുകളെ അപേക്ഷിച്ച് പപ്പൈൻ ആണ് ഏറ്റവും മികച്ചത് അതും വളരെ ചെറിയ അളവിൽ ഇവിടെ എങ്ങനെയാണ് പപ്പൈൻ ഇത് ചെയ്യുന്നതെന്നും എത്ര അളവിലാണ് പപ്പൈൻ കൊടുക്കുന്നതെന്നും അറിയാനായി ഞാൻ ചില റഫറൻസുകൾ നൽകാം അതിനാൽ പപ്പൈൻ ഒരു എൻസൈമാറ്റിക് ഡിസോസിയേറ്റായി പ്രവർത്തിക്കും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ സമയത്തെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് എന്നാൽ ഇത് മാത്രമല്ല ആദ്യം ഇവിടെ അളവിൻറെ ഒപ്റ്റിമൈസേഷൻ ആണ് വരുന്നത് അടുത്തതായി ആണ് സമയം വരുന്നത് ഇതോടൊപ്പമാണ് താപനിലയും വരുന്നത് ചിലപ്പോൾ എനിക്ക് താപനില കൂട്ടേണ്ടതായി വരും എന്നാൽ സാധാരണ രീതിയിൽ ചെയ്യണമോ അതോ ഇതിനായി ഒരു വാട്ടർ ബാത്ത് ഉപയോഗിക്കണോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് നാലു ഡിഗ്രിയിൽ ചെയ്യണോ അതോ 20 ഡിഗ്രിയിൽ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒപ്റ്റിമൈസേഷന്റെ സമയത്താണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരിക്കൽ നിങ്ങൾ ഈ പാരാമീറ്ററുകൾ ഒപ്റ്റിമൈസ് ചെയ്തുകഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴാണ് ഫീറ്റൽ ടിഷ്യുവിനെ യാന്ത്രികമായി വിച്ഛേദിക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ സെല്ലുകളിൽ ഭൂരിഭാഗവും പിരമിഡൽ ന്യൂറോണുകളും ഉയർന്നുവരുന്ന ഗ്ലിയൽ സെല്ലുകളുമാണ് അവയിൽ മിക്കതും ആസ്ട്രോസൈറ്റുകൾ ആയിരുന്നു ഇപ്പോൾ സെൽ കൾച്ചറിസ്റ്റ് പ്രത്യേകിച്ചും ന്യൂറൽ സെൽ കൾച്ചർ നന്നായി ചെയ്യുന്ന ആളുകൾ വർഷങ്ങളായി ചെയ്യുന്ന ഒരു കാര്യം ന്യൂറോണുകൾകായി മീഡിയത്തെ ഒപ്റ്റിമൈസ് ചെയുന്നു എന്നതാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ വികസിപ്പിച്ചെടുത്ത മീഡിയം ഗ്ലിയൽ സെല്ലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂറോണുകളെ അഥവാ ന്യൂറോണുകളെ മാത്രം മികച്ച രീതിയിൽ വളരാൻ അനുവദിക്കുള്ളൂ എന്നാണ് ഇത് നമ്മളെ ഒരു പ്രധാന വസ്തുതയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് നമുക്കറിയാം തലച്ചോറിൽ ന്യൂറോൺസും ഗ്ലിയൽ സെല്ലുകളും ഉണ്ടെന്ന് അതുപോലെ ന്യൂറോണുകളെകാൾ കൂടുതൽ ഗ്ലിയൽ സെല്ലുകൾ ആണെന്നും ഗ്ലിയൽ സെല്ലുകൾക്ക് ഒന്നിലധികം പ്രവർത്തികൾ ഉണ്ട് ഇതൊരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണെങ്കിൽ ഇവ മൈലൈനേഷനു സഹായിക്കും എന്നാൽ ഇവ ഷ്വാൻ സെല്ലുകൾ ആണെങ്കിൽ സെൻട്രൽ നെർവ്സ് സിസ്റ്റത്തിനു പുറത്തുള്ള മൈലൈനേഷനു സഹായിക്കും ഇനി ഇതൊരു ആസ്ട്രോസൈറ്റ് ആണെങ്കിൽ അവ ഹോമിയോസ്റ്റാസിസിനെ പിന്തുണയ്ക്കും ഇത് അധിക ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ട വിഷാംശവും ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കും അതിനാൽ മീഡിയം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥ കൽച്ചറിനോട് വളരെ അടുപ്പമുള്ള ഒരു മിശ്രിത കൾച്ചർ വേണമൊ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ശേഷം ഇത് നിങ്ങൾക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രേശ്നമുണ്ട് അതായത് ഈ സാഹചര്യത്തിൽ ന്യൂറോണുകൾ വിഭജിക്കില്ല എന്നാൽ ഗ്ലിയാൽ സെല്ലുകൾ വളരെ വേഗത്തിൽ വിഭജിക്കും മാത്രവുമല്ല ഒരുപാട് സമയം ഇവയെ വളരാൻ അനുവദിച്ചാൽ ഗ്ലിയാൽ സെല്ലുകളുടെ എണ്ണത്തിൽ ന്യൂറോണുകളെക്കാൾ വളരെ വർദ്ധനവ് ഉണ്ടാവുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ഇവ തമ്മിൽ ഒരു മത്സര സാഹചര്യം ഉണ്ടാവും കാരണം ഗ്ലിയാൽ സെല്ലുകൾ ഒരുപാട് വിഭജിക്കപ്പെടുന്നതിനാൽ അവ ഒരുപാട് പോഷകങ്ങൾ ഉപയോഗിക്കുകയും ക്രെമേണ നിങ്ങളുടെ കൽച്ചർ ഗ്ലിയാൽ സെല്ലുകളാൽ നിറയുകയും ദീർഘനേരം കൽച്ചർ വെച്ചേക്കുവാൻ സാധികാത്ത സാഹചര്യത്തിലേക്കും എത്തുന്നു അതിനാൽ ഒപ്റ്റിമൈസഷനായി നിങ്ങൾ ഒരു വഴി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മിശ്രിത കൽച്ചർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഗ്ലിയാൽ സെല്ലുകളുടെ എണ്ണത്തിലെ നിയത്രണം ഉറപ്പുവരുത്തുക ശെരിക്കും കൽച്ചറിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ആകില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതായത് കൃത്യമായ അവസ്ഥയെ നിങ്ങൾക് അനുകരിക്കാൻ സാദിക്കുവാണെങ്കിൽ അതായത് വളരെ ചെറിയ അളവിൽ ഗ്ലിയാൽ സെല്ലുകൾ ഉള്ള സാഹചര്യം എന്നാൽ നിങ്ങൾ യഥാർത്ഥ സാഹചര്യത്തോട് വളരെ വളരെ അടുത്തായിരിക്കും മാത്രവുമല്ല ഇത് ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുടെ വൈദ്യുത പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നു അതിനാൽ ഫീറ്റൽ ഹിപ്പോകാമ്പല് ന്യൂറോണിനായി സാധാരണയായി ഉപയോഗിക്കുന്ന മീഡിയങ്ങളെ ന്യൂറോ ബേസൽ മീഡിയം എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി ന്യൂറോ ബേസല് മീഡിയം എന്ന് കൊടുത് നോക്കാവുന്നതാണ് ന്യൂറോ ബാസൽ മീഡിയത്തിൽ ഒരു ഘടകം ചേർത്തിട്ടുണ്ട് ഈ ഘടകം വികസിപ്പിച്ചെടുത്തത് ഗ്രിഗറി ബ്രൂവർ ആണ് ഈ സമയത് ഇദ്ദേഹം സതേൺ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു തുടക്കത്തിൽ ഇദ്ദേഹം B10 അഥവാ B6 ഇങ്ങനെ മീഡിയം പോലെ ആയിരുന്നു വികസിപ്പിച്ചെടുത്തത് പിന്നീട് ഇതിൽ നിന്നും B27 ഉണ്ടാക്കുകയായിരുന്നു B27 ലെ 27 എന്നാൽ സെൻട്രൽ നേർവസ് സിസ്റ്റത്തെയും ന്യൂറോണിന്റെ വളർച്ചയെയും പിന്തുണക്കുന്ന 27 വ്യത്യസ്ത ഘടകങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് ഇതിനു ശേഷം മറ്റ് എക്സൈറ്റബിൾ സെല്ലുകളായ മസിൽ സെല്ലുകളുടേയും കാർഡിയാക് സെല്ലുകളുടേയും വളർച്ചയെയും ഇത് പിന്തുണക്കുമെന്ന് തെളിയിക്കപ്പെട്ടു എന്നാൽ അത് വളരെ വൈകിയായിരുന്നു കാരണം ഇത് ശെരിക്കും ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുടെയും തലച്ചോറിലെ മറ്റ് ന്യൂറോണുകളുടെയും വളർച്ചയെ പിന്തുണക്കുവാൻ വേണ്ടിയായിരുന്നു വികസിപ്പിച്ചത് പിന്നെ നിങ്ങൾക് 2 അനുബന്ധങ്ങളാണ് ഉള്ളത് ന്യൂറോ ബാസലിനെ സോഡിയം ബൈകാർബോണറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബഫർ ചെയ്തിരിന്നു അതിനാൽ നിങ്ങൾ co2 ഇങ്കുബേറ്റർ ഉപയോഗിക്കണം മിക്ക co2 ഇൻക്യൂബേറ്ററുകളും എംബ്രിയോണിക് ഹിപ്പോകാമ്പൽ അഥവാ ഹിപ്പോകാമ്പൽ ന്യൂറോൺ കൽച്ചറിനായി 5 ശതമാനം co2 ആണ് ഉപയോഗിക്കുന്നത് ആന്റിബയോട്ടിക് ആന്റി മൈകോട്ടിക് എന്നിവ ഇതിൽ അനുബന്ധമാണ് മറ്റൊരു ഘടകവും ഇതിൽ ചേർക്കുന്നുണ്ട് അതാണ് ഗ്ലുട്ടാമാക്സ് ഗ്ലുട്ടാമാക്സ് ഗ്ലുട്ടാമീൻ എന്നതിന്റെ ഡൈപെപ്റ്റൈഡ് ആണ് ഗ്ലുട്ടാമീൻ വളരെ പെട്ടെന്ന് മോശമാകുന്ന ഒരു ഘടകം ആയതിനാലാണ് നിങ്ങൾ ഇത് ചേർക്കുന്നത് അതിനാൽ സയൻസ് ടെക്നോളജിയിൽ ആദ്യം ഇൻ വിട്രോ ജീനിലാണ് പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തെ അതായത് അമിനോ ആസിഡായ ഗ്ലുട്ടാമീൻ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉപയോഗിച്ച് ചേർത്ത് ഡൈപെപ്റ്റൈഡ് ഉണ്ടാകുന്നു ഇതാണ് ഗ്ലുട്ടാമാക്സ് എന്നാൽ ഗ്ലുട്ടാമീനെ അപേക്ഷിച് ഗ്ലുട്ടാമാക്സിനാണ് കൂടുതൽ കരുത്തുറ്റ സ്ഥിരതയെന്നു കണ്ടെത്തിയിരുന്നു ഗ്ലുട്ടാമീൻ വേണ്ടത്ര പിന്തുണ നൽകില്ല ആയതിനാൽ ഇവയെ മീഡിയത്തിൽ ചേർത്താലും ഇവയുടെ ഷെൽഫ് ലൈഫ് വളരെ കുറവായിയ്ക്കും അതിനാൽ വികസിപ്പിചെടുത്ത മീഡിയം ഇതാണ് ഈ മേഖലയിലെ മിക്ക പ്രാരംഭ പായോനിയറിങ് ജോലികളും പ്രൊഫസർ ഗ്രിഗറി ബ്രൂവർ ആയിരുന്നു ചെയ്തത് അദ്ദേഹം ഇന്നുവരെ പ്രസിദ്ധീകരിച്ച പ്രവർത്തികളിൽ എല്ലാം തന്നെ അൽസീമേഴ്സിന്Alzeimer's എതിരായി വ്യത്യസ്ത മരുന്നുകളെ ഇൻ വിട്രോ തലത്തിൽ പരീക്ഷിച്ചനിനെ പറ്റിയാണ് അതിനാൽ ഇതാണ് ഫീറ്റൽ ഹിപ്പോകാമ്പൽ കൽച്ചറിനായി ഉപയോഗിക്കുന്ന മീഡിയം ഇനി ഈ മീഡിയത്തിൽ വരുത്തിയ മാറ്റം എന്തെന്നാൽ മിക്ക ഘടകങ്ങളും സമാനമായി തുടർന്നപ്പോ ഓസ്മോളാരിറ്റിൽ മാത്രം ഉള്ള മാറ്റം ആണ് കാരണം ഈ മീഡിയത്തിന്റെ ഓസ്മോളാരിറ്റി ഏകദേശം 215 തൊട്ട് 225 മില്ലിഓസ്മോൾ ആണ് അഡൽറ്റ് ഹിപ്പോകാമ്പൽ കൽച്ചറിനായുള്ള മീഡിയത്തിലെ ഓസ്മോളാരിറ്റി ഏകദേശം 260 തൊട്ട് 270 മില്ലിഓസ്മോൾ വരെ ആണ് വേണ്ടത് ഈ വാല്യൂ കിട്ടിയത് ഒരു പ്രായമേറിയ എലിയുടെ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൽ നിന്നാണ് അതിനാൽ ഗര്ഭപിണ്ഡത്തിനായി ഉപയോഗിച്ച ഈ മീഡിയത്തിന്റെ അടുത്ത മുന്നേറ്റം ന്യൂറോ ബേസലാണ് പക്ഷേ ഇത് മാർകെറ്റിൽ ലഭ്യമാകുന്നത് ന്യൂറോ ബാസൽ A ആയിട്ടാണ് ഇവിടെ A എന്നാൽ അഡൽറ്റ് എന്നാണ് അർത്ഥമാകുന്നത് അതിനാൽ ന്യൂറോ ബാസൽ A യും ന്യൂറോ ബാസൽ റെഗുലരും തമ്മിൽ ഓസ്മോളാരിറ്റിയിൽ ഉള്ള വ്യത്യാസം ആണ് ഉള്ളത് എന്റെ ഓർമ ശെരിയാണെങ്കിൽ ന്യൂറോ ബാസൽ A ൽ സോഡിയം ക്ലോറൈഡിന്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും അതിനാൽ നിങ്ങളുടെ കയ്യിൽ ന്യൂറോ ബാസൽ റഗുലർ ആണ് ഉള്ളതെങ്കിൽ NaCl ആവശ്യാനുസരണം ചേർത്താൽ ന്യൂറോ ബാസൽ A ഉണ്ടാകാവുന്നതേ ഉള്ളു ഇങ്ങനെയാണ് നിങ്ങൾ ന്യൂറോ ബാസലിനെ ന്യൂറോ ബാസൽ A ആക്കി മാറ്റുന്നത് ഇതാദ്യമായാണ് ഞാൻ ഈ കോഴ്സിൽ ഒരു മീഡിയത്തെ സ്പെസിഫിക് മീഡിയം ആയിട്ടു അവതരിപ്പിക്കുന്നത് അതിനാൽ മീഡിയം അതേപോലെതന്നെ തുടരുന്നതായിരിക്കും എന്നാൽ ഇപ്പൊ മറ്റൊരു ഘട്ടം അവതരിപ്പിക്കേണ്ടതുണ്ട് അവയെ എൻസൈമാറ്റിക് ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്നു അതായത് പപ്പൈൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വിച്ഛേദത്തിലും ഗ്രിഗറി ബ്രെവെർനെ കുറിച് പറയേണ്ടതായി വരുന്നു അതായത് ഇദ്ദേഹമാണ് വിച്ഛേദനം ചെയ്യാനുള്ള സാഹചര്യത്തെ ഒപ്ടിമൈസ് ചെയ്തത് ഇദ്ദേഹം കണ്ടെത്തിയത് വിച്ഛേദനത്തിനായി ഏകദേശം 30 മിനിറ്റോളം എടുക്കുമെന്നാണ് ഇപ്പോൾ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ഹിപ്പോകാമ്പസിന്റെ എല്ലാ കോശങ്ങളെയും വേർപെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ കോമ്പോസിഷനിൽ വിച്ഛേദിച്ച അഡൾട്ട് ഹിപ്പോകാമ്പൽ സെല്ലുകൾ ഉണ്ട് ന്യൂറോണിൽ പിരമിടൽ ന്യൂറോണും ഇന്റർ ന്യൂറോയോൺസും ഉണ്ട് ഗ്ലിയാൽ സെല്ലുകളിൽ ആസ്ട്രോസൈറ്റ്സ് ഉണ്ടാകുന്ന ആസ്ട്രോഗ്ലിയ യും ഒലിഗോഡൻഡ്രയ്ട്സും ഉണ്ട് ഇവയിൽ മിക്കതും മരിക്കും എന്നാലും ഇവിടെ മലിനീകരണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അവ മൈലിനേറ്റിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്നു എന്നാൽ എന്താവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക ചിന്തിച്ചുനോക്കൂ നിങ്ങൾക്ക് വ്യത്യസ്ത സെല്ലുകളുടെ ഒരു മിശ്രിതം ആവും കിട്ടുക അതിനാൽ നിങ്ങളുടെ അടുത്ത വെല്ലുവിളി ഇവയെ എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നതാണ് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ വന്ന് സെൽ കൽച്ചറിന്റെ സന്ഗീർണതയിലേക്കു നീങ്ങുന്നതായി നിങ്ങൾക് കാണാൻ സാധിക്കും അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ വീണ്ടും ഈ കേസ് പഠനത്തിൽ എങ്ങനെ സെല്ലുകളെ വേർതിരിക്കാം എന്നതിനെ കുറിച് ചില അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കം ഈ മാതൃക സമാനമായി തുടരും സെൽ തരം മാത്രമേ വ്യത്യാസപ്പെടുകയുള്ളൂ